അസംബ്ലി ഡ്രോയിംഗ്തുടരുന്നു ഹലോ അവസാന പ്രഭാഷണത്തിൽ സോളിഡ് വർക്കുകളിൽ ഉള്ള മേറ്റിങ്ങിന്റെ അടിസ്ഥാന പ്രാഥമിക രീതികൾ നിങ്ങൾ പഠിച്ചു അവ സാധാരണയായി ഉൽപ്പന്ന രൂപകൽപ്പനയിലെ ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കാൻ ഉപയോഗിക്കുന്നു അതിനാൽ നിങ്ങൾ അടിസ്ഥാന രീതികൾ പഠിച്ചു സിംഗിൾ സിലിണ്ടർ എൻജിൻ മുഴുവനായും രൂപകൽപ്പന ചെയ്യുന്നതിന് നിങ്ങൾ ഇപ്പോൾ ആ രീതികൾ പ്രയോഗിക്കും അതിനാൽ അതേ രീതിയിൽ തന്നെ നിങ്ങൾ ഒരു പുതിയ സോളിഡ് വർക്ക് തുറക്കും അത് അസംബ്ലിയിൽ പ്രവർത്തിക്കും ഓകെ ക്ലിക്കുചെയ്യുക ഈ സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ വികസിപ്പിക്കുന്നതിന് നമ്മൾ ഇതിനകം 6 ഭാഗങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് ഇവയെല്ലാം നിങ്ങൾ തിരഞ്ഞെടുക്കും നമ്മൾ ഇത് ഒന്നിനുപുറത്ത് സ്ഥാപിക്കുന്നു ഇതാണ് ക്രാങ്ക് റോഡ് ഇത് ക്രാങ്ക്ഷാഫ്റ്റ് ഫിൻ കേസിംഗ് ക്രാങ്ക് കേസിംഗ് പിസ്റ്റൺ പിൻ പിസ്റ്റൺ എന്നിവ നിങ്ങൾക്ക് ഈ ആറ് ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് അതിനാൽ നമ്മൾ പഠിച്ചിടത്തോളം ഇത് പരിഹരിക്കാൻ നിങ്ങൾ ഈ അറിവ് ഉപയോഗിക്കും അതിനാൽ നമുക്ക് ഈ ക്രാങ്ക് കേസിംഗ് തിരഞ്ഞെടുത്ത് റഫറൻസിനായി ഇത് ശരിയാക്കാം അതിനാൽ ഈ ക്രാങ്ക് ഈ സ്ലോട്ടിൽ യോജിച്ചതായിരിക്കുമെന്ന് നമുക്ക് അവബോധപൂർവ്വം മനസ്സിലാക്കാൻ കഴിയും ഇത് പരിഹരിക്കുന്നതിന് എന്ത് കൂടിച്ചേരൽ രീതിയാണ് പ്രയോഗിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയും ശരിയായ ഉത്തരം ഏകാഗ്ര ബന്ധമാണ് ഈ ഭാഗം ഈ സിലിണ്ടർ ഉപരിതലം ഈ കേസിംഗ് സിലിണ്ടറുമായി കേന്ദ്രീകരിക്കേണ്ടതുണ്ട് മാത്രമല്ല ഇത് മേറ്റിംഗ് കൂടി ചെയ്യും ഓകെ ക്ലിക്കുചെയ്യുക അതിനാൽ ഈ ക്രാങ്ക്ഷാഫ്റ്റ് ക്രാങ്ക് കേസിംഗിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന രീതിയിൽ ഇത് കൂട്ടിച്ചേർത്തു എന്നിരുന്നാലും ഇത് ലാറ്ററൽ ദിശയിലേക്ക് നീങ്ങാം ഇത് പരിഹരിക്കുന്നതിനായി ഈ ക്രാങ്ക്ഷാഫ്റ്റിന്റെ ഈ അരികും ക്രാങ്ക് കേസിംഗിന്റെ ഈ പ്രത്യേക അരികും പരസ്പരം യോജിപ്പിക്കേണ്ടതുണ്ട് ഈ മിനി ടൂൾബാറിൽ ഞങ്ങൾ ഓകെ ക്ലിക്കുചെയ്യും ഇപ്പോൾ റോടേഷൻ മാത്രമാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം ആയി അവശേഷിക്കുന്നത് ഇപ്പോൾ സിംഗിൾ സിലിണ്ടർ എഞ്ചിന്റെ ഒരു കവറായി ഈ ക്രാങ്ക് കേസിംഗിന് മുകളിലൂടെ ഈ ഫിൻ ശരിയാക്കാം ഇതിനായി നമ്മൾ ഈ പ്രത്യേക അരികും ഈ അരികും തിരഞ്ഞെടുക്കുന്നു നമ്മൾ ഇത് കൂട്ടിചേർക്കുന്നു നിങ്ങൾ ഓകെ ക്ലിക്കുചെയ്യും അതിനാൽ ഇപ്പോൾ ഈ അരികുമായി ഇത് കൂടിചേർന്നതായി നമുക്ക് കാണാം അതിനാൽ ഈ ക്രാങ്ക് കേസിംഗിന് മുകളിൽ ഈ ഫിൻ തിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഇതിനായി നമ്മൾ ഈ അരികും ഈ ക്രാങ്ക് കേസിംഗിന്റെ ഈ അരികും തിരഞ്ഞെടുക്കുന്നു സിംഗിൾ സിലിണ്ടർ എഞ്ചിന്റെ ഈ 6 ഭാഗങ്ങൾ പ്രത്യേക അസംബ്ലി ബന്ധങ്ങളുമായി പരസ്പരം ഒത്തുചേരേണ്ടതാണ് ഒന്നാമതായി നിങ്ങൾ ഈ ക്രാങ്ക് കേസിംഗ് പിക്ക് ചെയ്യുന്നു അവബോധത്താൽ ഈ ക്രാങ്ക്ഷാഫ്റ്റ് ഈ ക്രാങ്ക് യൂഎച് കേസിംഗിലേക്ക് ശരിയാക്കേണ്ടതുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും ഈ ക്രാങ്ക് കേസിംഗിലേക്ക് ഈ ഷാഫ്റ്റ് ശരിയാക്കുന്നതിന് എന്ത് ബന്ധമാണുള്ളതെന്ന് നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയും ശരിയായ ഉത്തരം ഏകാഗ്ര ബന്ധമാണ് മേറ്റ് ൽ ക്ലിക്കുചെയ്താൽ രണ്ട് ഉപരിതലങ്ങൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം മാത്രമല്ല ഇത് ഈ ഏകാഗ്ര ബന്ധത്തെ യാന്ത്രികമായി പരിഹരിക്കുകയും ചെയ്തു ഓകെ ക്ലിക്കുചെയ്യുക ഇപ്പോൾ ഇത് വിജയകരമായി സ്ലോട്ടിൽ ഉറപ്പിച്ചിരിക്കുന്നതായി നമുക്ക് കാണാം എന്നിരുന്നാലും ഇതിനു കൂടിച്ചേരാൻ കഴിയും ഇത് ലാറ്ററൽ ദിശയിലേക്ക് നീങ്ങുകയും ചെയ്യാം ഇത് പരിഹരിക്കുന്നതിന് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ ക്രാങ്ക് കേസിംഗിന്റെ അരികുമായി ഈ പ്രത്യേക അരികുമായി കോഇന്സൈഡ് ചെയ്യുക നിങ്ങൾ അത് കൂട്ടിച്ചേർക്കുകയും ലോക്ക് ചെയ്യും അതിനാൽ ഇപ്പോൾ ഇത് നല്ലതുമാണ് നമുക്ക് ഇത് കാണാൻ കഴിയും ഇപ്പോൾ ഈ സിംഗിൾ സിലിണ്ടർ എഞ്ചിനുള്ള 6 വ്യത്യസ്ത ഭാഗങ്ങൾ ഉണ്ട് ഭാഗങ്ങൾ തമ്മിലുള്ള തികഞ്ഞ ബന്ധം കണക്കിലെടുത്ത് നിങ്ങൾ ഇത് ഓരോന്നായി കൂട്ടിച്ചേർക്കും അതിനാൽ ഒന്നാമതായി നിങ്ങൾ ഈ ക്രാങ്ക് കേസിംഗ് എടുക്കും അവബോധത്താൽ ഈ ക്രാങ്ക്ഷാഫ്റ്റ് ഈ ക്രാങ്ക് കേസിംഗിന് അനുയോജ്യമാണെന്ന് കരുതാം ഈ ക്രാങ്ക് കേസിംഗുമായി ഈ ക്രാങ്ക്ഷാഫ്റ്റിന് എന്ത് ബന്ധമാണുള്ളതെന്ന് നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയും ശരിയായ ഉത്തരം കോൺസെൻട്രിക് റിലേഷനാണ് മേറ്റ് ആവുന്ന ഈ രണ്ട് ഉപരിതലങ്ങൾ തിരഞ്ഞെടുക്കേണ്ടിവരും പരസ്പരം ഈ കോൺസെൻട്രിക് റിലേഷൻ വിജയകരമായി കണ്ടെത്തി ഓകെ ക്ലിക്കുചെയ്യും അതിനാൽ ഇതിന് കോൺസെൻട്രിക് റിലേഷൻ ഉണ്ടെന്നു നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നിരുന്നാലും ഇതിന് ലാറ്ററൽ ദിശയിലേക്ക് നീങ്ങാൻ കഴിയും അതിനാൽ ഇത് പരിഹരിക്കുന്നതിന് നിങ്ങൾ ക്രാങ്ക്ഷാഫ്റ്റിന്റെ രണ്ട് അരികുകളും ഈ ക്രാങ്ക് കേസിംഗും തിരഞ്ഞെടുക്കുകയും നിങ്ങൾ അത് യാദൃശ്ചികമായി മാറ്റുകയും ഈ മിനി ടൂൾബാറിൽ ഓകെ തിരഞ്ഞെടുക്കുകയും ചെയ്യും ഇപ്പോൾ ഇപ്പോഴും ലാറ്ററൽ ദിശയിലേക്ക് ഈ ക്രാങ്ക്ഷാഫ്റ്റ് നീങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയും ഇത് പരിഹരിക്കുന്നതിന് പരസ്പരം യോജിപ്പിക്കുന്നതിനായി നിങ്ങൾ രണ്ട് അരികുകളും ഈ അരികും ഈ പ്രത്യേക അരികും തിരഞ്ഞെടുക്കും അതിനാൽ ഇത് നല്ലതുമാണെന്ന് നമുക്ക് കാണാൻ കഴിയും വൺ ഡിഗ്രി ഓഫ് ഫ്രീഡം one degree of freedom മാത്രം കറങ്ങുന്നു ഇതിന് പാർശ്വസ്ഥ ദിശയിലേക്ക് നീങ്ങാൻ കഴിയില്ല ഇപ്പോൾ ഈ ക്രാങ്ക്ഷാഫ്റ്റിന് മുകളിലൂടെ ഈ ഫിൻ കേസിംഗ് ശരിയാക്കാം ക്ഷമിക്കണം ക്രാങ്ക് കേസിംഗ് ഇതിനായിനിങ്ങൾ ഈ പ്രത്യേക അരികും ക്രാങ്ക് കേസിംഗിന്റെ ഈ അരികും തിരഞ്ഞെടുക്കും നിങ്ങൾ ഇത് യോജിക്കുന്നത് വരെ കൂടിച്ചേരുന്നു ഓകെ ക്ലിക്കുചെയ്യുക ഇത് വിജയകരമായി കൂടിച്ചേരും എന്നിരുന്നാലും ഇത് തിരിക്കാനോ മറ്റ് ദിശകളിലേക്ക് നീങ്ങാനോ കഴിയും ഇത് പരിഹരിക്കാൻ നമ്മൾ ഈ അരികും ഈ അരികും ചേരുന്നതിന് തിരഞ്ഞെടുക്കും ഇത് ക്രാങ്ക് കേസിംഗിന് മുകളിലൂടെ വിജയകരമായി വിന്യസിക്കുന്നു ഇപ്പോൾ മൂന്ന് ഭാഗങ്ങൾ അവശേഷിക്കുന്നു ക്രാങ്ക് റോഡ് ഈ പിൻ ക്ഷമിക്കണം പിസ്റ്റൺ അതിനാൽ ഈ ക്രാങ്ക് ഷാഫ്റ്റിനൊപ്പം ഈ ക്രാങ്ക് റോഡ് ഘടിപ്പിക്കണം അതിനാൽ ക്രാങ്ക്ഷാഫ്റ്റ് കറങ്ങുമ്പോൾ അതിന് നീങ്ങാൻ കഴിയും അതിനാൽ ഇതിനായി ഈ ക്രാങ്ക് റോഡിലെ ഈ പ്രത്യേക ദ്വാരത്തിന് ഈ ക്രാങ്ക്ഷാഫ്റ്റുമായി കോൺസെൻട്രിക് റിലേഷൻ ഉണ്ടെന്ന് കരുതാം നിങ്ങൾ ഈ ഉപരിതലവും ഈ ഉപരിതലവും തിരഞ്ഞെടുക്കുകയും അതിനെ ഏകാഗ്രമായി യോജിപ്പിക്കുകയും ചെയ്യും നിങ്ങൾക്ക് ഇത് ഇവിടെ കാണാം ഇപ്പോൾ അതിന് മുകളിൽ പിസ്റ്റൺ അറ്റാച്ചുചെയ്യാൻ നിങ്ങൾ ഇതിനായി പിസ്റ്റൺ തിരഞ്ഞെടുക്കും ഈ പിസ്റ്റോണിൽ ഈ സോണിൽ ഫിക്സ് ചെയ്യേണ്ട ക്രങ്ക്റോഡ് ഉണ്ട് അതിനാൽനിങ്ങൾ ഈ ക്രാങ്ക് റോഡിന്റെ അരികും ഈ പിസ്റ്റൺ അകത്തെ വശത്തിന്റെ അരികും തിരഞ്ഞെടുത്ത് യോജിപ്പിച്ച് തിരഞ്ഞെടുക്കും നിങ്ങൾ ഓകെ ക്ലിക്കുചെയ്യും അതിനാൽ ഈ പിസ്റ്റൺ ഇതിൽ ശരിയാക്കിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അവസാനം നമുക്ക് ഈ പിൻ ചേർക്കേണ്ടിവരും ഈ പിൻ ഉപരിതലത്തിൽ ഈ ഇടം കേന്ദ്രീകരിക്കേണ്ടതുണ്ട് നിങ്ങൾ ഇവിടെ ഉപരിതലം തിരഞ്ഞെടുക്കുകയും കോൺസെൻട്രിക് ആയി ഫിക്സ് ചെയ്യുകയും ചെയ്യുന്നു എന്നിരുന്നാലും ഈ പിന്നിനു ലാറ്ററൽ ദിശയിലേക്ക് നീങ്ങാൻ കഴിയും ഇത് പരിഹരിക്കാൻ ഈ പിന്നിന്റെ ഉപരിതലം പിസ്റ്റണിന്റെ സിലിണ്ടർ ഉപരിതലത്തിൽ സ്പർശിക്കുന്നതായിരിക്കേണ്ട മറ്റൊരു ബന്ധം നിങ്ങൾ നടത്തേണ്ടതുണ്ട് ഇവ രണ്ടും നിങ്ങൾ തിരഞ്ഞെടുക്കും മേറ്റിംഗ് യൂ എച് സോളിഡ് വർക്ക് മേറ്റ് ടാൻജെന്റ് ബന്ധത്തെ യാന്ത്രികമായി കണ്ടെത്തുന്നു നിങ്ങൾ ഓകെ ക്ലിക്കുചെയ്യും അതിനാൽ ഇത് നല്ലതായി പരിഹരിക്കുന്നു ഇപ്പോഴും ഈ ഫിൻ കേസിംഗിൽ ഇത് പരിഹരിക്കേണ്ടതുണ്ട് ഇതിനായി ഈ പിസ്റ്റൺ ഈ ഫിൻകേസിങ്ങുമായി കോൺസെൻട്രിക് ആയിരിക്കണമെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും ഒപ്പം മേറ്റ് ൽ ക്ലിക്കുചെയ്യും നിങ്ങൾ കോൺസെൻട്രിക് റിലേഷൻ നേരിട്ട് കാണുകയും ഓകെ ക്ലിക്കുചെയ്യുകയും ചെയ്യും ഇപ്പോൾ ഈ ബന്ധം ഈ അസംബ്ലി വളരെ നന്നായി കൂട്ടിച്ചേർത്തതാണെന്നും ഈ എഞ്ചിൻ മികച്ചതും മികച്ചതുമായി പ്രവർത്തിക്കുന്നുവെന്നും ഇവിടെ കാണാം ഈ എഞ്ചിൻ ചലനത്തിൽ കാണുന്നതിന് സോളിഡ് വർക്ക്സ് സിമുലേഷനും അവതരിപ്പിക്കുന്നു ഇതിനായി നിങ്ങൾ ഈ ചലന പഠനത്തിലേക്ക് പോകേണ്ടിവരും ഇൻ മോഷൻ സ്റ്റഡി ചുവടെയുള്ള പാളിയിൽ നിങ്ങൾക്ക് ഈ മോട്ടോർ ഓപ്ഷൻ ഉണ്ട് ഈ മോട്ടോറിൽ നിങ്ങൾ മോട്ടോർ തിരഞ്ഞെടുക്കും ഇത് തിരിക്കേണ്ട ഘടകത്തെ ആവശ്യപ്പെടുന്നു സോളിഡ് വർക്ക് ഈ മോട്ടോർ ഓപ്ഷൻ ഇവിടെ അവതരിപ്പിക്കുന്നു ഈ മോട്ടോർ ഓപ്ഷനിൽ ഇത് ഒരു മോട്ടോർ ഉപയോഗിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിക്കേണ്ട ഒരു ഘടകം ആവശ്യപ്പെടുന്നു അതിനാൽ ഈ ക്രാങ്ക്ഷാഫ്റ്റ് മോട്ടോർ തിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഇത് തിരഞ്ഞെടുക്കും നമുക്ക് പ്രയോഗിക്കേണ്ട ഈ മോട്ടോറിനായി ഈ ആർപിഎം തിരഞ്ഞെടുക്കാം നമുക്ക് ഇത് 50 ആക്കാം ഓകെ ക്ലിക്കുചെയ്യുക ക്രമീകരണങ്ങളിൽ ചലന ക്രമീകരണങ്ങളിൽ 30 എന്ന് പറയുന്നതുപോലെ നിങ്ങൾ സെക്കൻഡിൽ ഫ്രെയിമുകൾ നിർമ്മിക്കും നിങ്ങൾ ഓകെ ക്ലിക്കുചെയ്യുക ഇപ്പോൾ ഇവിടെ ടൂൾ ആനിമേഷൻ ടൂൾബാറിൽ നിങ്ങൾ ബേസിക് മോഷൻ തിരഞ്ഞെടുക്കും നിങ്ങൾ പ്ലേ ചെയ്യും ഈ ആനിമേഷൻ നന്നായി പ്രവർത്തിക്കുന്നതായി നിങ്ങൾക്ക് കാണാം ഇതിന്റെ ദൈർഘ്യം വർദ്ധിപ്പിക്കാനും നിങ്ങൾക്ക് കഴിയും നിലവിൽ ഇത് 5 സെക്കൻഡ് മാത്രമാണ് ഈ എഞ്ചിന്റെ ചലനം നിങ്ങൾക്ക് കാണാം സിംഗിൾ സിലിണ്ടർ ക്ഷമിക്കണം ഇപ്പോൾ സിംഗിൾ സിലിണ്ടർ എഞ്ചിനിലെന്നപോലെ ഈ ക്രാങ്ക്ഷാഫ്റ്റ് ക്രാങ്ക്കേസും crankcase| ഫിനുമായി ബന്ധപ്പെട്ട് ഈ പിസ്റ്റണിന്റെയും ക്രാങ്ക്ഷാഫ്റ്റിന്റെയും ചലനം നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് നന്നായി പ്രവർത്തിക്കുന്നു ഇത്തരത്തിലുള്ള ആനിമേഷൻ സേവ് ചെയ്യുന്നതിന് സേവ് ദി അനിമേഷൻ എന്ന ഓപ്ഷൻ ചെയ്യുന്നു ഒരു മീഡിയയുടെ രൂപത്തിൽ നിങ്ങൾ കണ്ട ഈ ആനിമേഷൻ സേവ് ചെയ്യാൻ ഇത് നമ്മളെ അനുവദിക്കുന്നു അതിനാൽ നിങ്ങൾ ഇത് തിരഞ്ഞെടുക്കുകയും ഇതിനെ എഞ്ചിൻ എന്ന് നാമകരണം ചെയ്യുകയും സേവ് ചെയ്യുകയും ചെയ്യുന്നു ഇത് ഈ കംപ്രഷൻ ഗുണനിലവാരം ആവശ്യപ്പെടുന്നു നമ്മൾ ഓകെ ചെയ്യുന്നു ഇത് സിമുലേറ്റ് ചെയ്യാൻ സമയമെടുക്കും ഇപ്പോൾ ഇവിടെ ജനറേറ്റു ചെയ്ത ഫയൽ നമുക്ക് കാണുവാൻ സാധിക്കും ഇത് നിങ്ങൾക്ക് ഇവിടെ പ്ലേ ചെയ്യാൻ കഴിയും ഈ സിംഗിൾ സിലിണ്ടർ എഞ്ചിനായി സൃഷ്ടിച്ച ആനിമേഷൻ ഇതാണ് ഇപ്പോൾ സോളിഡ് വർക്ക് സവിശേഷതകളിലെ ചലന പഠനമായിരുന്നു ഇത് അതിനാൽ അവസാനമായി കത്രിക കാറ്റ് വിൻഡ് മിൽ ട്രാക്ടർ scissors the wind the windmill and the tractor എന്നിവയുടെ കാര്യത്തിൽ നിങ്ങൾ ആദ്യം കണ്ട എക്സ്പ്ലോഡഡ് വ്യൂവിനെ കുറിച്ചും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു അത് കാണുന്നതിന് നമുക്ക് ഈ ഓപ്ഷൻ എക്സ്പ്ലോഡഡ് വ്യൂ ഉണ്ട് എക്സ്പ്ലോഡഡ് വ്യൂ ഈ വ്യൂ നിങ്ങൾ ക്ലിക്കുചെയ്യും ഇപ്പോൾ എക്സ്പ്ലോഡഡ് വ്യൂവിന് ഈ വ്യൂവിന് ഒരു പാളി ഉണ്ട് എക്സ്പ്ലോഡഡ് വ്യൂ കാഴ്ചയുടെ ക്രമീകരണമാണിത് ഇതിനായി ഏതെങ്കിലും ഒരു ഭാഗം തിരഞ്ഞെടുക്കേണ്ടതുണ്ട് ഇത് മൂന്ന് അക്ഷങ്ങൾ നൽകുന്നു ഇത് മൂന്ന് ഭാഗങ്ങളിലേക്ക് ഈ ഭാഗം നീക്കാൻ നമ്മളെ അനുവദിക്കുന്നു അതിനാൽ നമുക്ക് ഈ Z ദിശ തിരഞ്ഞെടുക്കാം നിങ്ങൾ ഈ കേസിംഗ് ഈ പിന്നോക്ക ദിശയിലേക്ക് നീക്കും ഇപ്പോൾ നിങ്ങൾ ഈ പിൻ X ദിശയിലേക്ക് പുറത്തെടുക്കുകയും മുകളിൽ ഈ പിസ്റ്റൺ നീക്കുകയും ചെയ്യും കൂടാതെ നമുക്ക് ടുവേ മോഷനും സാധ്യമാകുന്നതാണ് അതായത് പിസ്റ്റോണിലെ അധിക ചലനവും ZY Z എന്ന് പറയാം ഈ ക്രാങ്ക് റോഡ് നമ്മൾ അതിൽ നിന്ന് പുറത്തെടുക്കും ഈ ക്രങ്ക് ഷാഫ്റ്റ് X പോസിറ്റീവ് X ദിശയിൽ ക്രങ്ക് കേസിംഗ് നെഗറ്റീവ് Y ദിശയിലും ഇത് പൂർത്തിയായി ഈ സിംഗിൾ സിലിണ്ടർ പിസ്റ്റൺ അസംബ്ലിക്കായുള്ള എക്സ്പ്ലോഡഡ് വ്യൂ നിങ്ങൾ ഓകെ ക്ലിക്കുചെയ്താൽ എക്സ്പ്ലോഡഡ് വ്യൂ പൂർത്തിയാകും ഈ എക്സ്പ്ലോഡഡ് വ്യൂ ആനിമേറ്റുചെയ്യാൻ നിങ്ങൾ ഈ അസംബ്ലിയിലേക്ക് പോകേണ്ടതുണ്ട് നിങ്ങൾ അസംബ്ലിയിൽ ക്ലിക്കുചെയ്യുകയും ആനിമേറ്റ് കോളാപ്സ് തിരഞ്ഞെടുക്കുകയും ചെയ്യും അതിനാൽ നിങ്ങൾ അത് പൊട്ടിത്തെറിച്ചതുപോലെ അത് തകരും അതിനാൽ ഈ ആനിമേഷനായുള്ള ടൂൾബാർ ഇതാ നിങ്ങൾക്ക് ഇത് വേഗത്തിലാക്കാം അല്ലെങ്കിൽ വേഗത കുറയ്ക്കാം അതുപോലെ ഒരിക്കൽ അത് തകർന്നാൽ അത് പൊട്ടിത്തെറിച്ചതുപോലെ ആനിമേറ്റുചെയ്യാനും ആനിമേറ്റ് എക്സ്പ്ലോഡ് ചെയ്യുവാനും കഴിയും ഈ ചലന പഠനത്തിൽ നിങ്ങൾ ചെയ്തതു പോലെ ഈ സിനിമയും ഒരു മാധ്യമമായി സേവ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും ആനിമേഷൻ സേവ് നിങ്ങൾ തിരഞ്ഞെടുക്കും ഫയലിന്റെ പേരായി എക്സ്പ്ലോഡഡ് എന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കും അത് സേവ് ചെയ്യുകയും ചെയ്യും നമ്മൾ വീണ്ടും ഗ്രാഫിക്സ് സിമുലേറ്റ് ചെയ്യുന്നു കൂടാതെ ഫയൽ ഇവിടെ കാണാം ഇത് പൊട്ടിത്തെറിക്കുന്നു നിങ്ങൾക്ക് ഈ ആനിമേഷൻ നന്നായി കാണാൻ കഴിയും അവസാനം ഉൽപ്പന്ന രൂപകൽപ്പനയ്ക്കായി വിവിധ ഭാഗങ്ങളുടെ അസംബ്ലിക്ക് ആവശ്യമായ അടിസ്ഥാന മേറ്റിങ്ങിനെക്കുറിച്ച് നിങ്ങൾ പഠിച്ചു അവസാനമായി നാം അറിഞ്ഞിരിക്കേണ്ടത് ഈ അസ്സെംബ്ലിസ് സേവ് ചെയ്യുക എന്നതാണ് അതിനാൽ നിങ്ങൾ ഈ ഫയലിലേക്ക് പോയി സേവ് എന്ന് അടയാളപ്പെടുത്തുന്നത് തിരഞ്ഞെടുക്കും ഇതിന് ഫയൽ നാമം ചോദിക്കും നിങ്ങൾ അതിനെ f 1 എന്ന് അടയാളപ്പെടുത്തും ഇത് നമ്മുടെ ഫയൽ ഡോട്ട് എഎസ്എം ആയി സംരക്ഷിക്കുന്നു ഈ ഡോട്ട് എഎസ്എം ഫയൽ ഈ അസംബ്ലിയുടെ അവസ്ഥയാണ് നിങ്ങൾക്ക് ഇത് വീണ്ടും പരിശോധിക്കാൻ കഴിയും നിങ്ങൾ ഇത് അടയ്ക്കും നിങ്ങൾ ഈ എഫ് 1 സംരക്ഷിച്ച ആ എസ്എം ഫയൽ തുറക്കും ഇപ്പോൾ നിങ്ങൾ മുമ്പ് നടത്തിയ പ്രവർത്തനങ്ങൾ എന്തുതന്നെയായാലും അവ സംരക്ഷിക്കപ്പെട്ടതായി കാണാൻ കഴിയും മുമ്പത്തെപ്പോലെ എല്ലാം നമുക്ക് കാണാൻ കഴിയും അതിനാൽ നിങ്ങൾക്ക് ഇത് മറ്റേതെങ്കിലും കമ്പ്യൂട്ടറിൽ പ്ലേ ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കൊടുക്കാൻ കഴിയും ചില വ്യവസായങ്ങൾക്കോ മറ്റെന്തിനും ഇവിടെ ഈ ആനിമേഷന്റെ അവസാനം വരുന്നു ഈ അസംബ്ലി പ്രക്രിയയുടെയും അവയുടെ ആനിമേഷൻ ചലന പഠനത്തിന്റെയും അവസാനം ഈ അസംബ്ലി ചലന പഠനം എന്നിവയ്ക്കുള്ള അടിസ്ഥാന ആമുഖമായിരുന്നു ഇത് വളരെ നന്ദി